നമുക്ക് ഇനി വെക്ടർ കാൽകുലസിലെ ചില പൊതുവായ തിയറികളെ പറ്റി പറയാം എന്നാൽ സിദ്ധാന്തങ്ങളെ പറ്റി പറയുന്നതിനു മുന്നോടിയായി നമുക്ക് വിവിധ ഇനം ഇന്റഗ്രൽസിനെ പരിചയപ്പെടേണ്ടതുണ്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റുകളെ പറ്റി പഠിച്ചു ഡോട്ട് ഉത്പന്നത്തെ പറ്റിയും നോക്കി ക്രോസ്സ് പ്രോഡക്റ്റ് എന്താണെന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസിലായിക്കാണും അവയെല്ലാം ഡിഫറെൻഷ്യൽ ഘടകങ്ങൾ ആണ് അടുത്ത വളരെ പ്രധാനപെട്ട ഒന്നാണ് ഇന്റഗ്രൽസ് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നത് പോലെ തന്നെ നമുക്ക് നോക്കാൻ ഉള്ളത് മൂന്നു തരം ഇന്റഗ്രലുകളെ പറ്റിയാണ്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 രേഖ ഇന്റഗ്രലുകൾനമ്മൾ മുന്ന് പഠിച്ചത് പോലെ തന്നെ രണ്ടും തരം ആണ് ഉള്ളത് മുൻപ് ചെയ്തത് പോലെ എനിക്ക് a എന്ന ബിന്ദുവിൽ നിന്നും b എന്ന ബിന്ദുവിലേക്ക് പോകാൻ കഴിയുന്ന വിധം അതായത് ഒരു ബിന്ദു ഇവിടെയും മറ്റൊന്ന് ഇവിടെയും മനസ്സിലായോ അതായത് ഇവിടെ ഇന്റഗ്രലിന്റെ പ്രകൃതം അനുസരിച്ചു ഇന്റഗ്രൽ ഒരു പാത പിന്തുടരാം ഇല്ലാതെയും ഇരിക്കാം കാരണം നമുക്ക് അറിയാം ഇതിനെ ഗ്രാഡ് f എന്ന രീതിയിൽ എഴുതാൻ കഴിഞ്ഞാൽ ഇത് ഒരു പാതയും പിന്തുടരില്ല അപ്പൊ ഇതാണ് ഒരു തരത്തിൽ ഉള്ള ലൈൻ ഇന്റഗ്രൽ മറ്റൊരു ലൈൻ ഇന്റഗ്രൽ നമുക്ക് നോക്കാം അതും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു അടഞ്ഞ പാതയിൽ ഉള്ള ഇന്റഗ്രൽ ആണ് അടുത്തത് മാത്രമല്ല ആ പാത നമുക്ക് ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാം ഉദാഹരണത്തിന് ഈ ഒരു പാതയെ ഞാൻ എന്ന ചിഹ്നം ഉപയോഗിച്ച് കാണിക്കുന്നു ശെരി അപ്പൊ ഇതാണ് നമ്മൾ നോക്കുന്ന രണ്ടും തരം ലൈൻ ഇന്റഗ്രൽസ് വളരെ എളുപ്പം അല്ലേ അപ്പൊ നമുക്ക് ഇനി സർഫേസ് ഇന്റഗ്രൽസ് എന്താണെന്നു നോക്കാം ഇനി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്ര തരം സർഫേസ് അറിയാം തുറന്നതും അടഞ്ഞതും ആയ സർഫേസ് പ്രഥലംശെരിയല്ലേ അപ്പോൾ ഉദാഹരണം നോക്ക് ഇവിടെ ഞാൻ ഒരു കപ്പോ മറ്റൊരു സർഫേസ്ഓ കാണിക്കുന്നു ഇവിടെ കപ്പിന്റെ സർഫേസ് a എന്ന് സൂചിപ്പിക്കുന്നു ഇതിനെ നമുക്ക് S എന്ന് വിളിക്കാം അപ്പൊ ഈ ഇന്റഗ്രൽ ഈ ഒരു രീതിയിൽ ആയിരിക്കും ഇനി ഞാൻ ഇത് അടച്ചു വച്ചു എന്ന് കരുതുക അപ്പോൾ ഇത് മൂടിവച്ച ഒരു കപ്പായി മാരി അല്ലേ ഇപ്പൊ നോക്ക് ഒരേ ചിഹ്നമുള്ള ഒരേ ഇന്റഗ്രലിനെ ഇത് സൂചിപ്പിക്കുന്നു ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുന്നു അതായത് ഒരു തുറന്ന സർഫേസ് എത്രത്തോളം വ്യാപ്തം അത് ഉൾകൊള്ളുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല അതായത് ഒരു തുറന്ന സർഫേസ് ഉൾകൊള്ളുന്ന വ്യാപ്തം ഒന്നെങ്കിൽ അനന്തമാണ് എന്നോ അല്ലെങ്കിൽ നിർണയിക്കാൻ കഴിയുന്നില്ല എന്നോ പറയാം പക്ഷെ ഒരു അടഞ്ഞ സർഫേസ് ആണെങ്കിലോ അതിൽ ഒരു കൃത്യമായ വ്യാപ്തം ആയിരിക്കും ഉണ്ടായിരിക്കുക ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നു ഓർത്തിരിക്കുക ശരി അങ്ങനെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ വോളിയം ഇന്റഗ്രലിനെ പറ്റിയാണ് ഇതിനു മറ്റേതിൽ നിന്നും അതികം വ്യത്യാസം ഒന്നും ഇല്ല ഇത് സൂചിപ്പിക്കുന്നത് അടഞ്ഞ വോളിയം V യുടെ ഇന്റഗ്രേഷൻ ആണ് ചിലസമയങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവതരണം ആവശ്യമാണ് ഇത് വോളിയത്തിനു പുറമെയുള്ള വെക്ടറിനെ സൂചിപ്പിക്കുന്ന ഒരു ഇന്റഗ്രൽ ആണ് നമുക്ക് പേടിക്കണ്ട ആവശ്യമില്ല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 അതായത് ഇത് ഓരോ ഘടകത്തിന്റെയും പുറമെയുള്ള ഇന്റഗ്രേഷൻ ആണ് ഇവിടെ dv ഇങ്ങനെ തന്നെ തുടരുന്നു അപ്പോൾ പറയു ഈ അളവ് ഒരു സ്കാലർ ആണോ വെക്ടർ ആണോ ഇത് ഒരു വെക്ടർ ആണ് അല്ലേ മാത്രമല്ല ഈ വെക്ടറിന്റെ ഘടകങ്ങൾ ഈ തന്നിരിക്കുന്ന അളവുകളാൽ സൂചിപ്പിക്കുന്നു ഇനി നിങ്ങൾക്ക് പരിചിതമാവേണ്ട ഒരു ചെറിയ കാര്യമുണ്ട് അതാണ് പ്രശ്നത്തിന്റെ അളവുകോളുകളെപറ്റി ചിന്തിക്കണ്ട എന്നുള്ളത് ഉദാഹരണത്തിനു ഇതൊരു 1D ഇത് 2 D പിന്നെ ഇത് 3 D ആണെങ്കിലും നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരേ ഒരു ഇന്റഗ്രൽ ചിഹ്നം ആണ് മനസിലായോ ഇനി മറ്റ് രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ദ്വിമാനഇന്റഗ്രേഷൻ ആണെന്ന് കരുതുക അവിടെ നിങ്ങൾ ഒരു ഡബിൾ ഇന്റഗ്രലോ ട്രിപ്പ്പിൾ ഇന്റഗ്രലോ ഇട്ടു കൊടുത്തു എന്ന് കരുതുക പക്ഷെ നമുക്ക് ആ ഒരു കോൺടെസ്റ്റിൽഡിഫറെൻഷ്യൽ എലമെന്റിനെ അനുസരിച്ചു അതൊരു സിംഗിൾ ഇന്റഗ്രൽ ആണോ ഡബിൾ ഇന്റഗ്രൽ ആണോ അതോ ട്രിപ്പ്പിൾ ഇന്റഗ്രൽ ആണോ എന്ന് വ്യക്തമാവും അതായത് നിങ്ങൾ ഒരു ആണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് അറിയാം അതൊരു വോളിയം ഇന്റഗ്രൽ ആണെന്ന്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 ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് ഒരു വൺ ഡിമെൻഷണൽ ഇന്റഗ്രൽ ആണ് നിങ്ങൾക്ക് കാണാം dl എന്നത് നീളവും ദിശയും കാണിക്കുന്ന ഒരു രേഖ യാണ് ശെരി ഇനി സർഫേസ് ന്റെ കാര്യത്തിൽ സർഫേസ് എലമെന്റ് എങ്ങിനെ ആയിരിക്കാം കാണപ്പെടുക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 അപ്പോൾ ഇതിനു ഒരു ദിശയും പരപ്പളവും ഉണ്ടാവും അതായത് ഇവിടെപുള്ള ഈ നമുക്ക് ഇങ്ങനെ എഴുതാം ഇത് അതിന്റെ പരപ്പളവ് കാണിക്കുന്നു അതായത് ഇത് പരോക്ഷമാണ് മാത്രമല്ല ds എഴുതുമ്പോൾ നമുക്ക് മനസിലാവുകയും ചെയ്യും വോളിയം ഇന്റഗ്രേൽസിനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല കാരണം അതിൽ ദിശ സൂചിപ്പിക്കുന്നില്ല നമുക്കറിയാവുന്നത് പോലെ അവിടെ നമ്മൾ ഒരു ഡിഫറെൻഷ്യൽ വ്യാപ്തം മാത്രമാണ് എടുക്കുന്നത് ഇതുപോലെ കുറെയായി ഞാൻ ഉപയോഗിക്കുന്നത് x y z എന്ന ഭാഷയാണ് പക്ഷെ ഇങ്ങനെ തന്നെ വേണം എന്നില്ല എനിക്ക് സ്പെറിക്കൽ കോഡിനേറ്റുകളായ സിലിണ്ടറിക്കൽ കോഡിനേറ്റുകൾആയ ഉപയോഗിക്കാം ഇത് നമ്മുടെ പ്രശ്നത്തെ അടിസ്ഥാനപെടുത്തിയിരിക്കും പ്രശനം നമുക്ക് എങ്ങിനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം അപ്പോൾ ശെരി ഇതാണ് നമ്മൾ നോക്കുന്ന ഇന്റഗ്രലുകൾ ഇനി നമ്മൾ നമ്മുടെ വെക്ടർ കാൽകുലസിലെ ആദ്യ പ്രധാനപെട്ട തിയറം നോക്കാം ഇത് അറിയപെടുടുന്നത് ഡൈവേർജൻസ് സിദ്ധാന്തം എന്നാണ് പല ബുക്കുകളിലും നമുക്ക് ഇതിനു പല പേരുകൾ കാണാം ഇതേ സിദ്ധാന്തം നമ്മൾ ഗോസ്സ് സിദ്ധാന്തം അല്ലെങ്കിൽ ഇലക്ട്രോ സ്റ്റാറ്റിക്കിലെ ഗോസ്സ് നിയമം എന്നെല്ലാം ഉള്ള പേരിൽ പഠിച്ചിട്ടുണ്ട് ഇത് ഗ്രീൻ സിദ്ധാന്തംഎന്നും അറിയപ്പെടുന്നുണ്ട് ഗോസും ഗ്രീനും വളരെ ഫേമസ് ആയ പഴയ ശാസ്ത്രഞ്ജരാണ് ഇതിനെ നമുക്ക് എങ്ങനെ വിവരിക്കാം ആദ്യം തന്നിരിക്കുന്ന ജ്യാമീതീയ വ്യാഖ്യാനങ്ങളെ ഒരു അവബോധപരമായ രീതിയിൽ എഴുതുകയും ഡൈവേർജൻസ് സിദ്ധാന്തം ഒരു ലളിതമായ രീതിയിൽ പറയുകയും ചെയ്യാം എനിക്കൊരു പൈപ്പ് ഉണ്ട് അതിൽ ഇങ്ങനെ വെള്ളം വരികയും ചെയ്യും ഇനി ഇവിടെ ഒരു വ്യാപ്തം ഉണ്ടെന്ന് സങ്കല്പിക്കുക ഇത് അടച്ചാൽ ഇതൊരു അടഞ്ഞ സർഫേസ് ആയി മാറുന്നു ഇനി ഞാൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് എത്രത്തോളം വെള്ളം ഞാൻ വരച്ച ഈ ചിത്രത്തിൽ ഉൾകൊള്ളും എന്നതാണ് ശെരി ഇനി ഇവിടെ ഈ ഒരേ ഒരു പൈപ്പ് മാത്രമാണ് ഉള്ളത് മാത്രമല്ല ഞാൻ ഇതിനെ ഒരു നേരെയുള്ള അവസ്ഥയിൽ കണക്കാക്കുന്നു നേരയുള്ള അവസ്ഥ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈപ്പ് ഇപ്പോൾ ഒരേ ദിശയിൽ ആണ് തുറന്നിട്ടിരിക്കുന്നത് വെള്ളം ആ വ്യാപ്ത്തിൽ നിറയുന്ന രീതിയിൽ ഇനി എനിക്ക് ഈ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ജലം അലക്കണം എങ്കിൽ അതായത് ഇതാണ് V എന്ന വ്യാപ്തം ഉൾകൊള്ളുന്ന സർഫേസ് ആണ് S ഇവിടെ വെള്ളം ഉപരിതലത്തിൽ നിന്നും തീർച്ചയായും പുറമേക്ക് പോവും കാരണം ഇവിടെ ഉള്ള ഈ പൈപ്പ് ഒരു മാന്ത്രിക ആകൃതിയിൽ ആണ് അതുകൊണ്ട് ജലം പുറമേക്ക് ഒഴുകുന്നു എങ്കിൽ നിങ്ങളിനി എന്താണ് ചെയ്യുക നിങ്ങൾ അവിടയുള്ള ഉപരിതലത്തിൽ നിന്ന് ഫ്ലക്സ് എത്രയാണ് എന്നു അളക്കുക ഫ്ലക്സ് എന്നാൽ എത്രത്തോളം പുറമേക്ക് പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഉദാഹരണത്തിനു ജലം ഈ ഉപരിതലത്തിൽ കൂടി ഒഴുകുക ആണെങ്കിൽ ഇത് പുറമേക്ക് പോകുകയില്ല അതായത് ഇവിടെ ഉള്ള ഫ്ലക്സ് സർഫേസ് ന്റെ കേന്ദ്രീകരണത്തെഅനുസരിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ ഉള്ളത് ഒരു സാധാരണ വെക്ടർ ആണ് ഇനി നിങ്ങൾ സിദ്ധാന്തത്തിന്റെ പ്രയോഗത്തിലേക്ക്നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് കാണിക്കുന്നത് ഒരു പുറമേക്കുള്ള ഫ്ലക്സിനെ ആണ് ഓർക്കുക ds ന് ഉള്ളത് ഒരു സാധാരണ വെക്ടർ ആണ് അതുകൊണ്ട് ഞാൻ ഈ വെക്ടർ ഫീൽഡിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നോർമൽ വെക്ടോറിനോടൊപ്പം എടുക്കുന്നു അതെനിക്ക് എത്രത്തോളം പുറമേക്ക് ഒഴുകുന്നു എന്നു കാണിച്ചു തരുന്നു ഇപ്പോൾ ഇത് പുറമേക്കുകൊഴുകുന്ന ജലത്തെ അളക്കുന്നതിനു അർത്ഥം നൽകുന്നു എനിക്ക് കുറച്ചിക്കൂടി കൃത്യമായ കണക്ക് കൂട്ടലുകൾ ചെയ്യാം എനിക്ക് ഈ പൈപ്പിനവ അറിയാമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എത്ര പൈപ്പുകൾ ഉണ്ട് എന്നു അറിയാമെങ്കിൽ അതായത് ഇവിടെ ഒന്നോ അതിലധികമൊ പൈപ്പുകൾ ഉണ്ടാവാം ശെരി ഇപ്പൊ എനിക്ക് ഇപ്പോൾ പൈപ്പുകൾ ഉണ്ട് എങ്കിൽ എന്തായിരിക്കാം വെക്ടർ ഫീൽഡ്ഇൽ നിന്ന് പുറമേക്കൊഴുകുന്നത്തിന്റെ അളവ് അതൊരു വ്യതിയാനംആവാം അല്ലെ അത് എനിക്ക് എത്രയാണ് പുറമേക്ക് പോവുന്നത് എന്നു കാണിച്ചു തരുന്നു അതിനാൽ ഞാൻ ഈ ജലത്തിന്റെ ഒഴുക്കിനെ പ്രതിനിധീകരിക്കുന്ന വെക്ടർ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നു ഇനി ഞാൻ ഇതിനുള്ളിലെ വ്യത്യസ്ത ബിന്ദുക്കളിലെ വ്യതിയാനം കണ്ടെത്തിയാൽ അതിന്റെ തുകായായി എത്രത്തോളം ജലം പുറമേക്കൊഴുകുന്നു എന്നെനിക്ക് കണ്ടെത്താനാവും അല്ലേ പക്ഷെ അത് വ്യാപ്തത്തിന്റെ ഓരോ ബിന്ദുവിലെയും ആണ് അതാണ് ഇവിടെ ഉള്ള പ്രയോഗം ഇത് എത്രത്തോളം വ്യതിയാനം സംഭവിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്നു മാത്രമല്ല എനിക്ക് ഈ വ്യാപ്തത്തിന്റെ ഇന്റഗ്രേഷൻ ചെയ്യാം കാരണം ഇവിടെ ഒരുപാട് ഒരുപാട് പൈപ്പുകൾ ഉണ്ട് അല്ലേ അതായത് ഇതാണ് ഒരേ പ്രശ്നം അലക്കാൻ ഉള്ള രണ്ടും മാർഗങ്ങൾ മാത്രമല്ല ഇത് നമ്മൾ എങ്ങനെ അളക്കുന്നു എന്നതിന്റെ ജ്യാമീതീയ അവബോധം കൂടിയാണ് അതായത് ജലത്തിന്റെ ബജറ്റിംങ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നത് നിങ്ങൾക്കിത് ഒന്നെങ്കിൽ V എന്ന വ്യാപ്തം ഉപയോഗിച്ചോ അല്ലെങ്കിൽ S എന്ന സർഫേസ് നെ അടിസ്ഥാനപെടുത്തിയോ ചെയ്യാം പക്ഷെ ഒന്നോർക്കുക സർഫേസ് ഒരു അടങ്ക സർഫേസ് ആയിരിക്കണം കരണം ഞാൻ പറയുന്നത് വ്യാപ്തത്തെ പറ്റിയാണ് അതായത് ഇവിടെ ഉള്ളത് ഒരു അടഞ്ഞ ഉപരിതലം ആണ് ഇതാണ് വ്യതിയാന സിദ്ധാന്തം ഇതിന്റെ ജ്യാമീതീയ അവബോധം ഒരു തെളിവിലേക്ക് എത്തിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇടതു വശത്തു എത്ര അളവുകൾആണ് ഉള്ളത് ഇന്റഗ്രലിൽ എത്ര അളവുകൾ ഉണ്ട് 3 ഡൈമെൻഷൻ അല്ലെഅതായത് വോളിയം ഇന്റഗ്രൽ ഇനി വലത് കൈ വശത്തോ വിദ്യാർത്ഥി രണ്ട് ഡൈമെൻഷൻ രണ്ട് ഡൈമെൻഷൻ അല്ലേ അതിനാൽ ഒരു കമ്പ്യൂറ്റേഷണൽ ചിന്താഗതിയിൽ എനിക്കിതിനെ ഡൈമെൻഷണൽ പ്രശ്നം കുറക്കാനായി സഹായിക്കേണ്ടതുണ്ട് അതായത് നോക്ക് നമ്മൾ പറയുകയാണ് ഇവിടെ ഞാൻ ഇടതു കൈ വശം ഉപയോഗിക്കുന്നത് ഒരു പ്രശ്നമാണ് എങ്കിൽ അതിനെ സംഖ്യാപരമായി പരിഹരിക്കാൻ എനിക്ക് വ്യാപ്തിയെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ആക്കേണ്ടതുണ്ട് ശേഷം ഓരോ ഭാഗത്തിലും വ്യത്യസ്ത കണക്കൂട്ടലുകൾ നടത്തുകയും വേണം അതായത് വളത്തുകായ് വശം എന്നോട് പറയുന്നത് ഒരേ കണക്കുകൂട്ടലുകൾ നടത്താൻ ഞാൻ പോകാൻ ആവശ്യം ഇല്ലാത്ത ഉപരിതലം തന്നെ തിരഞ്ഞെടുക്കണം നമുക്കറിയാം വ്യാപ്തം എന്നാൽ ഉപരിതലത്തേക്കാൾ ഒരു വലിയ അളവാണ് അല്ലെ അപ്പോൾ അതിന്റെ ചിലവ് ചുരുക്കാനായി ചില വഴികളുണ്ട് ഇതും ഡൈവേർജൻസ് സിദ്ധാന്തത്തിന്റെ ചില കമ്പ്യൂറ്റേഷണൽ മാർഗങ്ങൾ ആണ് ഇപ്പോൾ ഇതിന്റെ രേഖാചിത്രം വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഞാൻ ഇതിനു മുഴുവനായി ഔട്ട്ലൈൻ നൽകുന്നില്ല പക്ഷെ നമുക്ക് ഒരു ചെറിയ ആശയം ഇതിനെപ്പറ്റി വേണം നമുക്ക് വലതു കൈ വശത്തു നിന്ന് തുടങ്ങാം അപ്പോൾ വലതു കൈ വശം എന്നോട് പറയുന്നു ഇത് ഒരു സർഫെസിൽ നിന്നുള്ള ഫ്ലക്സ് ആണെന്ന് അപ്പോൾ നമ്മൾ ഒരു ചെറിയ ബോക്സ് എടുക്കുക ഇതാണ് x y z ഇത് മുകളിലോട്ട് ആണ് സൂചന നൽകുന്നത് ഇനി നമുക്ക് പറയാം ഇവിടെ കേന്ദ്രം ആണ് മാത്രമല്ല ഓരോ ഡൈമെൻഷണിലും ഈ ബോക്സിന്റെ വീതി ആണ് ഇവിടെ ലംബമായി നു മുകളിലും ആണ് ഇനി ഈ ചെറിയ വളരെ ചെറിയ വ്യാപ്തമായ V ക്ക് ഞാൻ വലതു കൈ വശം അലക്കാൻ പോകുന്നു ആയതിനാൽ നമുക്ക് ഈ രണ്ട് ഉപരിതലങ്ങൾ എടുക്കാം ഇതും ഇതും ok പുറമേക്കുള്ള സാധാരണ പ്രഥലങ്ങൾ ആണ് ഉള്ള രണ്ടും അതായത് ഈ ഉപരിതലത്തിനു ഉം മാത്രമല്ല സാധാരണ പോയിന്റ് പിന്നോട്ടുള്ള ദിശയിലും ആണ് അതായത് ഇത് x ആണ് അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഉപരിതല ഇന്റഗ്രലിന്റെ കണക്കുകൂട്ടിനോക്കാം ശെരി നമുക്ക് ഇനി x ഉപരിതലം നോക്കാം അതായത് ഉപരിതലം ഇനി ഈ വളരെ ചെറിയ വ്യാപ്തം സങ്കല്പിക്കുക അതായത് ഈ ഫങ്ങ്ഷൻ അകത്തു അധികം വ്യത്യാസം വരുന്നില്ല അതായത് ഞാൻ ആദ്യം ഈ വശം എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് പറയാൻ ആവുക നമുക്ക് ഈ ഒരു ഫഗ്ഷന്റെ മൂല്യം കുറച്ചോ അധികമൊ സ്ഥിരമായി തന്നെ തുടരുന്നു അതായത് എനിക്ക് ഇതിനെ A എന്നു വിളിക്കാം ഏത് ഘടകം ആവാം A ആയി എടുക്കുന്നത് ഞാൻ സാധാരണയായി ഒരു ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം അതായത് നോർമൽ ഉള്ളത് ഇൽ ആണ് അപ്പോൾ ഇവിടെ തുടരുന്ന ഘടകം ഏതായിരിക്കും വിദ്യാർത്ഥി x x മാത്രം അല്ലെ അപ്പൊ ഞാൻ ഇതിനെ എന്നെഴുതി ഇവിടെ ഉള്ള ഉപരിതലത്തിന്റെ മൂല്യമാണ് ഇവിടെയുള്ള കോഡിനേട്റ്റുകൾ അതായത് എനിക്കിപ്പോ എന്ന സമവാക്യം ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കേന്ദ്രത്തിലെ ഫങ്ക്ഷന്റെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കുന്നു പ്രഥലത്തിന്റെ കേന്ദ്രം എളുപ്പത്തിൽ ആണ് മാത്രമല്ല കോൺട്രിബൂഷൻ കുറക്കുകയും ചെയ്യും ഈ ഭാഗത്തുനിന്ന് x നെ അതിജീവിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ സംഭാവന ചെയുന്നു അല്ലേ ഇവിടെ ഉള്ള മൂല്യം എന്താണ് വിദ്യാർത്ഥി X0 തീർച്ചയായും ആണ് അതിനാൽ ഇത് പുരം വശം ആണ് അതായത് ഇത് കേന്ദ്രത്തിൽ നിന്നും മാറി ദൂരത്തിലാണ് മറ്റ് കോഡിനേറ്റുകൾ മാറ്റാമില്ലാതെ തുടരുന്നു അപ്പോൾ ഇതാണ് A യിൽ നിന്നും വരുന്ന വെക്ടർ ഘടകങ്ങൾ ഇവിടെ വിട്ടുപോയ കാര്യം എന്താണ് ഉപരിതല വിസ്തീരണം എന്നത് ആണ് അപ്പൊ പറയു എന്താണ് ഇവിടത്തെ ഉപരിതല വിസ്തീർണം വിദ്യാർത്ഥി dy dy അല്ല പക്ഷെ ഉം ഉം ആണ് ശെരിയല്ലേ ഇനി പറയു ഇവിടെയുള്ള ഈ പ്രയോഗം നിങ്ങളെ എന്തെങ്കിലും ഓര്മിപ്പിക്കുന്നുണ്ടോ ഇവിടെ അത്യാവശ്യമായി ചെയ്യേണ്ടത് നെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുക എന്നതാണ് അല്ലേ ഞാനത് ചെയ്താൽ എനിക്ക് എന്ന് കിട്ടും മാത്രമല്ല ഇവിടെയുള്ളത് ഉം ആണ് മറ്റ് എല്ലാ ഘടകങ്ങളും വിട്ടുകളയുക കാരണം അവയെല്ലാം ഒന്നുതന്നെ ആണ് കാരണം അവ മാറുന്നില്ല ഇത്ആകുന്നു മാറ്റമില്ല എന്നു മാത്രമല്ല എല്ലാം കൊണ്ട് ഹരിക്കുന്നു ഇനി ഞാൻ ആളുകൾ 0 ത്തിലേക്ക് അടുക്കുന്നു എന്ന ലിമിറ്റ് എടുക്കുന്നു ഇതെന്താണ് dV അല്ലെ ഇത് ഡിഫറെൻഷ്യൽ വ്യാപ്തം ആണ് അല്ലെ മാത്രമല്ല ഈ പ്രയോഗം കാണിക്കുന്നത് ഏത് ഘടകം ആണ് മാറുന്നത് എന്നാണ് ഏതാണ് ഇവിടെ x ഘടകം മാത്രമാണ് മാറുന്നത് അല്ലേ അതായത് ശെരിയല്ലേ അതായത് ഇത് കണക്കാക്കുന്നത് സാധാരണ മൂല്യമുള്ള ഉപരിതലമാണ് അതുപോലെ ഇവിടെ രണ്ട് ഉപരിതലങ്ങൾ ഉണ്ട് നോർമൽ y ഉം നോർമൽ z ഉം മനസ്സിലായോ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്നു വച്ചാൽ ഇവിടെ പൊതുവായത് dV ആണ് പിന്നെ എനിക്ക് ഒരു പാർഷ്യൽ ഉണ്ട് ok അപ്പോൾ ഇങ്ങനെ ആണ് നമുക്ക് അത് കിട്ടുന്നത് മാത്രമല്ല അത് ശെരിക്കും നമ്മുടെ ഇവിടെയുള്ള പ്രയോഗം പോലെ ഇരിക്കും അതായത് നമുക്ക് ഒരു സംതൃപ്തികരമായ ജ്യാമീതീയ ആശയം ഉണ്ട് അത് പുറമേക്ക് ഒഴുകുന്ന വ്യാപ്തത്തെ പറ്റി വിവരിക്കുന്നു മാത്രമല്ല നമുക്കിത് വളരെ എളുപ്പമുള്ള രീതിയിൽ വിവരിക്കാം ഇത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റി ഒരു ഒരു ആത്മവിശ്വാസവും നൽകുന്നു അതിനാൽ ഇതാണ് ഡൈവേർജൻസ് സിദ്ധാന്തം ഞാൻ മുൻപ് പറഞ്ഞത് പോലെ ഇത് ഡൈമെൻഷണൽ പ്രശ്നങ്ങൾ കുറക്കുവാൻ സഹായിക്കുന്നു ഇനി നമുക്ക് അടുത്തത്തിലേക്ക് പോവാം ഇത് നമ്മൾ മുൻപ് പറഞ്ഞ ചുരുളുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇത് ചുരുൾ സിദ്ധാന്തം എന്നും സ്റ്റോക്സ് സിദ്ധാന്തംഎന്നും എന്നറിയപ്പെടുന്നു ശെരി സ്റ്റോക്സ് സിദ്ധാന്തം എന്നത് ഇവിടെ ഉള്ള ചിലതുമായി ചുരുളിനെ ബന്ധപ്പെടുത്തുന്നു അതിനാൽ ഇത് x ആണ് ഇതാണ് ജ്യാമീതീയ ചിത്രം എടുക്കുന്നതിനു മുമ്പുള്ള സിദ്ധാന്തത്തിന്റെ പ്രസ്താവന ഇനി ഇതെങ്ങനെ തെളിയിക്കാം എന്നു നോക്കാം അതായത് ചുരുളിനെ സംബന്ധിക്കുന്ന ജ്യാമിതീയത അവബോധം സ്വയം എത്രത്തോളം കറങ്ങുന്നു എന്നു കാണാം ശെരി ഇപ്പോൾ ഇവിടെ കാണുന്നത് A യുടെ ചുരുൾ ആണ് അതായത് ഇത് പറയുന്നത് എത്രത്തോളം ഒരു വെക്ടർ ഫീൽഡ് കറങ്ങും എന്നാണ് പക്ഷെ അത് മാത്രം അല്ല അവിടെ ഉപരിതല വെക്ടർ ഡിഫറെൻറഷ്യൽ എലമന്റ് ഉള്ള ഒരു ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട് അതായത് ഇത് ഒരു വെക്ടറിന്റെ കറക്കം ആണ് മാത്രമല്ല ശേഷം ഇത് ഇന്റഗ്രലിന്റെ ഫ്ലൂക്സും ആണ് എങ്കിൽ ശ്രദ്ധിക്കു ഇതൊരു തുറന്ന ഉപരിതലമാണോ അതോ അടഞ്ഞതാണോ വിദ്യാർത്ഥി തുറന്ന ഉപരിതലം അതൊരു തുറന്ന ഉപരിതലമാണ് അല്ലേ അതൊരു വൃത്തം അല്ല അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ഉപരിതലത്തെ പറ്റി ചിന്തിക്കാം അപ്പോൾ ഇതാണ് എന്റെ ഇവിടെയുള്ള ഉപരിതലം നജ്ൻ ഇത് ഇവിടെ എഴുതി ശെരി ഇനി നമുക്ക് dS ന്റെ ഒരു ചെറിയ ഭാഗം എടുക്കാം എന്താണ് നടക്കുന്നത് എന്നാൽ ഞാൻ ഈ കറക്കത്തിലെ പുറത്തേക്ക് പോകുന്ന ഫ്ലക്സിനെ കണക്കാക്കുന്നു മാത്രമല്ല ഇത് മൊത്ത ഉപരിതലത്തിലും നടപ്പിലാക്കുന്നു അതിനാൽ അതിനാൽ എനിക്ക് ഈ മുഴുവൻ ഉപരിതലത്തെയും ചെറിയ പാച്ചുകളായി തരം തിരിക്കാം ശേഷം അവൻ കൂട്ടാം ഇനി ഓർക്കുക നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വെക്ടറിന്റെ കറക്കത്തെ പറ്റിയാണ് നോക്ക് ഈ ഒരു പാച്ചിൽ ഇത് എത്രത്തോളം കറങ്ങുന്നു എന്നെല്ലാം ഇനി നിങ്ങൾക്ക് കാണാം ഞാൻ ഇത് എത്രത്തോളം സൂം ചെയ്തിട്ടുണ്ട് എന്നു അതിനാൽ എനിക്ക് ഇവിടെ രണ്ട് പാച്ചുകൾ ഉണ്ട് അവൻ വശത്തോട് വശം ചേർന്നവയാണ് ഈ പാച്ച് ഈ ദിശയിൽ കറങ്ങുന്നു ശെരി ഞാൻ ഇവിടെയുള്ള ഈ പൊതുവായ അഗ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ചുറ്റുകൾ ഒരർത്ഥത്തിൽ ഇല്ലാതായി പോകുന്നുണ്ട് ഞാനിതെല്ലാം കൂട്ടിയാൽ എന്താണ് ഉണ്ടാവുക ഏതെല്ലാം ഭാഗങ്ങൾ ആവാം ഇല്ലാതാവാത്തത് ഏറ്റവും പുറമെയുള്ള അഗ്രംഅല്ലേ അതായത് അവിടെ എന്തെല്ലാം തന്നെ സംഭവിച്ചാലും അതൊന്നും ഇല്ലാതാകുന്നില്ല അതിനാൽ ജ്യാമീതീയമായി നമുക്ക് എന്ത് പറയാം നിങ്ങൾക്ക് പുറമേക്ക് ഉള്ള ഫ്ലക്സ് നന്നായി അളക്കണം എങ്കിൽ അതിനെ ഓരോ എലമെന്റിനെയും എടുത്ത് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് ഈ ഉപരിതലത്തിലൂടെ നടന്നുകൂടാ അതിനോടൊപ്പം ഉപരിതലത്തിലെ വെക്ടർ ഫീൽഡ്കൾ ശേകരിച്ചുകൂടാ ഇത് നമുക്ക് ഇങ്ങനെ കാണിക്കാം അതായത് എന്നതാണ് എനിക്കിവിടെ നിന്നും ലഭിച്ചത് ok അതായത് ജ്യാമീതീയ രൂപം വളരെ വ്യക്തമാണ് അവിടെ ചുറ്റുകളും ഉണ്ട് അവ അവയുടെ അകത്തുള്ള ചുറ്റുപാടിൽ ഇല്ലാതാകുന്നു ഇതൊന്നു സൂക്ഷ്മായി പരിശോധിക്കു ഇവിടെയുള്ള ഈ ചുറ്റുകൾ ശ്രദ്ധിക്കു അതായത് ഇവിടെ ഇത് ഈ ദിശയിൽ നീങ്ങുന്നു ആരും അത് ഇല്ലാതാകുന്നില്ല അതുപോലെ ഇവിടെയും നമുക്ക് നേരിട്ട് ഇത് എടുക്കാം ശേഷം വളഞ്ഞ പ്രതലത്തിലെത്തിനൊപ്പം ഇത് കൂട്ടാം അപ്പോൾ ഈ ജ്യാമീതീയ ചിത്രത്തിലെ സ്റ്റോക്സ് സിദ്ധാന്തം ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ പ്രയോഗം കണ്ട് നിങ്ങൾ ഭയപ്പെട്ടേക്കാം വളരെ മോശമായി കാണപ്പെടുന്ന അളവുകൾ ആണ് ഇത് പക്ഷെ ജ്യാമീതീയ ചിത്രം വ്യക്തമാണ് സമാനമായി ഈ പ്രയോഗത്തിന് നമുക്ക് എന്ത് ചെയ്യാം ഇനി മന്നത് മുൻപ് ചെയ്തത് പോലെ തെളിവ് ചിത്രീകരിക്കാൻ നോക്കാം വീണ്ടും നമ്മൾ വലതു കൈ വശം എടുക്കാം മാത്രമല്ല കാര്യങ്ങൾ എളുപ്പമാകാം നമുക്ക് x y പ്രഥലത്തിൽ തന്നെ ചുരുങ്ങാം അതായത് ഇതാണ് എന്റെ x y പിന്നെ ഇതാണ് പാച്ച് കേന്ദ്രം വീണ്ടും ശ്രദ്ധിക്കു ഞാൻ എടുക്കാൻ പോകുന്നു മാത്രമല്ല പാച്ച് ഉം വീതി ഉം ആണ് ഇങ്ങനെ ആണ് ഞാനിത് കൂട്ടാനും വലതു കൈ വശത്തെ വിശകലനം ചെയ്യാനും പോകുന്നത് അതിനാൽ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ വരച്ച വെക്ടർ ഫീൽഡ് ഇതാണ് A എന്നത് x y പ്രഥലത്തിൽ ആണ് അതായത് ആണ് എന്റെ വെക്ടർ ഫീൽഡ് ഇനി ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി ഈ ദിശയിലേക്ക് നീങ്ങുന്നു ഉം ഉം വളരെ ചെറിയ അളവാണെന്ന് സങ്കല്പിക്കുക ശെരി ഇന്റഗ്രലിന്റെ ഈ ഒരു ഭാഗത്തെ ഞാൻ വളരെ ലളിതമായി ഏകദേശം രൂപീകരിക്കപ്പെടുത്തുന്നു ശേഷം ഈ ബിന്ദുവിൽ ഫങ്ക്ഷൻ അതിന്റെ നീളം കൊണ്ട് ഗുണിക്കുന്നു എന്നിവ മാറുന്നില്ല എന്നു കരുതുക ശെരി അത് വളരെ ചെറിയ എലമെന്റ് ആണ് എന്തായാലും നമ്മൾ ഈ ഒരു ലിമിറ്റ് എടുക്കുക ആണ് എന്നിവ പൂജയത്തോട് അടുക്കുന്നു അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത് എനിക്ക് കിട്ടിയ ആദ്യം പദം ആണു ഈ പാതയിൽ dl ആണ് ഇതിനെ നമുക്ക് പാത 123 4 എന്നിങ്ങനെ വിളിക്കാം ഒന്നാമത്തെ പാതയിൽ എത്രയാണ് ശെരി ആണ് എലമെന്റ് ok ശെരി ഞൻ ഇനി നെ നീളമായി എഴുതി A യുടെ ഏത് ഘടകമാണ് ഇതിലേക്ക് സംഭാവന ചെയ്യുക അല്ലെ അത് അപ്പോൾ ആണ് ഈ ഫങ്ക്ഷനിൽ ഞാൻ എടുത്ത കോഡിനേറ്റുകൾ ഏതെല്ലാം ആവാം എന്തിന്റെ അടിസ്ഥാനത്തിൽ ആവാം ഞാൻ അവയെ വിലയിരുത്തുന്നത് അതിനാൽ ഓർക്കുക ഇതിന്റെ കേന്ദ്രം ആണ് അതായത് ഈ ബിന്ദു ആണ് ശെരിയല്ലേ അതാണ് ഇവിടെ ഉള്ള വ്യത്യാസവും ഇനി അടുത്തത് ഇത് ഒന്നാമത്തെ പാതയിൽ നിന്നുമാണ് ഇനി നമുക്ക് പാത 2 നെ ശ്രദ്ധിക്കാം ശേഷം പാത 3 നോക്ക് നമുക്ക് ഇതിന്റെ ഓർഡർ ഒന്ന് മാറ്റാം അജി ഒരു പ്രശ്നമല്ല അതിനാൽ പാത 3 ഇൽ നിന്നും എന്താണ് dl ലേക്കുള്ള സംഭാവന മൈനസ് എന്നത് ദിശയിലാണ് ഞാൻ അതുകൊണ്ട് ഇതിനെ നീളത്തിന്റെ മൈനസ് എലമെന്റ് ആയി എഴുതാൻ പോകുന്നു അത് ഇതാണ് എങ്കിൽ പറയു ഇവിടെ ഏത് ഘടകം ആണ് സംഭാവന ചെയ്യുന്നത് ആണോ ആണോ പിന്നെയും സംഭാവന ചെയ്യുമോ മാത്രമല്ല എനിക്ക് ഇവിടെ എന്താനുള്ളത് അല്ലെ അതിനാൽ ഇതാണ് പാത 1 ഉം പാത 3 ഉം ok ഇനി നമുക്ക് ബാക്കി രണ്ട് പാതകൾ നോക്കാം പാത 2 ഉം പാത 4 ഉം ശെരി പാത 2 ൽ ഡിഫറെൻറഷ്യൽ എലമെന്റ് ഏതാണ് ആണോ ഈ പകുത്തായിൽ A യുടെ ഏത് ഘടകം ആണ് വരിക ആണോ ആണോ ആണ് ഘടകമെങ്കിൽ കോഡിനേറ്റുകൾ ഏതെല്ലാം പിന്നെ ഇനി ഞൻ ഈ പാത 4 യിൽ തുടർന്ന് പോവുകയാണെങ്കിൽ dl എന്നത് ദിശയെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത് ഇങ്ങനെ കാണപ്പെടുന്നു മറ്റൊരു വക്കിൽ പറഞ്ഞാൽ ഞാൻ പാത 1ഉം പാത 2 ഉം പാത 3 ഉം പാത 4 ഉം കൂട്ടി ഇനി നമുക്ക് 1 ഉം 3 ഉം ശ്രദ്ധിക്കാം ഇവിടെ പൊതുവായത് ആണ് മാത്രമല്ല പാത 2 യിലും 4യിലും പൊതുവായത് ഉം ആണ് ശെരി ഇനി നമ്മൾ മുന്ന് ചെയ്തത് പോലെ കാണാതായ പദത്തെ നമ്മൾ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുന്നു അതായത് ആദ്യ രണ്ട് പദങ്ങളിൽ ഏതിനെ ആണ് എനിക്ക് ഗുണവും ഹരണവും ചെയ്യാൻ സാധിക്കുക അതെ ആണ് ഇത് ഇപ്പോൾ ആയി മാത്രമല്ല ഇപ്പോൾ എനിക്ക് കിട്ടിയത് ആണ് അതായത് Axx നോട്ട് y നോട്ട് മൈനസ് ഡെൽറ്റ y ഹരിക്കണം 2 മൊത്തം ഹരിക്കണം ഡെൽറ്റ നമ്മൾ y യെ ഹരിച്ചതും നമുക്ക് കിട്ടിയതുമായ പദം ഡെൽറ്റ ആണ് അതായത് ഇനി ലിമിറ്റ് ആയി നമ്മൾ എടുക്കുന്നു ഇതാണ് നമ്മുടെ ലിമിറ്റ് ശെരി ഈ എന്നത് എന്താണ് വിദ്യാർത്ഥി dS അതെ dS ആണ് എങ്കിൽ ഇവിടെ ഉള്ള ആദ്യ പദത്തിനു എന്ത് സംഭവിക്കുന്നു ഇതൊരു പാർഷ്യൽ ആണ് ഏത് പദത്തിന്റെ പാർഷ്യൽ ഡേറിവേറ്റിവ് ആവാം എന്തിനോട് അനുബന്ധിച്ചാണ് അതെ y ആണ് പക്ഷെ ഒരു നെഗറ്റിവ് ചിന്നത്തോട് കൂടി അല്ലെ അതായത് ഇത് ആയി കണക്കാക്കാം മാത്രമല്ല രണ്ടാമത്തെ പദം y യുടെ പാർഷ്യൽ ഡെറിവറ്റീവ് ആണ് മാത്രമല്ല അത് ഒരു plus ചിന്നത്തോട് കൂടിയതാണ് ok ഇനി നിങ്ങൾ ഇവിടെ ഉള്ള ചുരുൾ പ്രയോഗത്തിൽ പ്രവർത്തിക്കുക ആണെങ്കിൽ ഇതാണ് ചുരുളിന്റെ ഘടകങ്ങൾ അല്ലേ അതായത് ഇവിടെ x ഉം y ഉം ഉണ്ട് അപ്പോൾ ഇവിടെ കാണാതായിരിക്കുന്ന പദം z ആണ് അപ്പൊ ഇതാണ് ഇവിടെ ഉള്ള z ഘടകം ശെരിയല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് ഈ സിദ്ധാന്തത്തിന്റെ പ്രസ്താവന അവബോധപരമായി കാണിച്ചു തരുന്ന ജ്യാമീതീയ ആശയം ഇതിന്റെ തെളിവ് വീണ്ടും വളരെ എളുപ്പമാണ് നമ്മൾ നോക്കേണ്ടത് ഉപരിതലത്തിനു ചുറ്റുമുള്ള ഉപരിതലത്തിലേക്കും രേഖയിലേക്കും ആണ് നമ്മളിവിടെ ഒരു ചെറിയ ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ ഇത് നമുക്ക് ഒരു z ഘടകം തരുന്നു നോർമൽസിനാൽ ചുറ്റപ്പെട്ട ഒരു ഉപരിതലം നമുക്ക് ഓരോ ഘടകത്തിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഘടകങ്ങളും ലഭിക്കുന്നതാണ് വീണ്ടും വളരെ തുറന്ന രീതിയിൽ ഫ്ലക്സി നെയും ഇന്റഗ്രലിനെയും ഉപയോഗിച്ച ഒരു ചെറിയ അവബോധം ഉണ്ടാക്കാം ഇതിനെ ആണ് സോക്സ് സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഇനി നമ്മൾ സ്റ്റോക്സ് സിദ്ധാന്തത്തിലെ ചെറിയൊരു വ്യതിയാനം ശ്രദ്ധിക്കണം മുമ്പുള്ള സ്റ്റോക്സ് സിദ്ധാന്തം തന്നെ ഒന്നിലധികമായി യോജിപ്പിച്ച പ്രദേശമായി കണക്കാക്കാം മുൻപ് ഉണ്ടായിരുന്നു ഉപരിതലം ഒരു സുഷിരംആയിരുന്നു അതായത് അത് ഏകതാനമായിരുന്നു അവിടെ സുഷിരങ്ങളും ഇല്ല ഇവിടെ ഇന്റഗ്രൽ ഒന്നിലധികം ബന്ധിപ്പിച്ച പ്രഥലമായ ഗാമയാണ് ശെരി ഇനി ഒന്നിലധികം ബന്ധിപ്പിച്ച ഈ പ്രദേശത്തു ഉപരിതലം ഇങ്ങനെ ആവാം എന്നാൽ ഇവിടെ ഒരു സുഷിരം ഉണ്ട് ആ സുഷിരം നിലനിൽക്കുന്നില്ല ഉദാഹരണത്തിന് ഇവിടെ ഇലക്ട്രോ മഗ്നറ്റിക് ഫീൽഡ്കൾഇല്ല അല്ലെങ്കിലും ഇതൊരു റൂം ആണ് മാത്രമല്ല ഈ റൂമിനകത്തു ഒരു ഫാരഡേ കേജ് ഉം ഉണ്ട് നമുക്കറിയാം ഫാരഡേ കേജിനകത്തു ഫീൽഡ് 0 ആണ് പിന്നെന്തിനു അത് കണക്കാക്കണം അതിനാൽ നമ്മൾ സുഷിരത്തിന്റെ ആ പരപ്പളവ് അല്ലെങ്കിൽ വ്യാപ്തം നമ്മൾ കണക്കാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നു അപ്പൊ ഇതാണ് ആ സുഷിരം അല്ലേ ഇപ്പോൾ ഈ ഉപരിതലം S രണ്ട് രേഖകളോ കോൺടൂർ രേഖകളോ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു ശെരി നമുക്ക് ഇതിനെ എന്നു വിളിക്കാം മാത്രമല്ല ഇവിടെ മറ്റൊരു രേഖ ഉണ്ട് അതിനെ എന്നു എടുക്കാം ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് സ്റ്റോക്സ് സിദ്ധാന്തം ഈ കാണുന്ന ഉപരിതലത്തെയും അതിന്റെ വ്യാപ്തതെയും പറ്റി നൽകുന്നത് എന്നാണ് അല്ലെ ശെരി ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്രസ്താവന പോലെ നിങ്ങൾക്ക് രണ്ട് രേഖകൾ ഉള്ള ഇന്റഗ്രലുകൾ തമ്മിലുള്ള വ്യതാസം മനസിലാക്കാം നമുക്കിപ്പോൾ രണ്ട് രേഖ ഇന്റഗ്രലുകൾ ഉണ്ട് ഉം ഉം മാത്രമല്ല ഇതിന്റെ അവബോധജന്യമായ വിവരണം എന്തായിരിക്കാം ഇത് പിന്നെയും ആ ഒരുപാട് ചുറ്റുകൾ ഉള്ള ജ്യാമീതീയ രൂപത്തിന് സമാനമായിരിക്കും ശെരി ഞാനിനി ഇവിടെ കാണുന്ന ഈ ചുറ്റ് എടുത്താൽ അത് ഇല്ലാതാക്കാനില്ല എന്നു കാണാം ഇനി നജ്ൻ ഇവിടെ ഉള്ള ഉപരിതല എലമെന്റ് എടുത്താൽ അതും ഇവിടെ ഉള്ള ഒരു ഭാഗത്തുനിന്നും ഇല്ലാതാകുന്നില്ല എന്നു മനസിലാക്കാം ശെരി എങ്കിൽ ഞാൻ ഇതിനെ എന്നു വിളിക്കുന്നു മാത്രമല്ല ഇവിടെയുള്ള ഈ ഭാഗത്തെ എന്നും വിളിക്കാം ഓക്കേ ഇനിഈ ദിശയിലും ആ ദിശയിലും ആണ് സൂചിപ്പിക്കുന്നത് അതായത് ഞാൻ ഇവിടെ ന്റെ ഈ ബജറ്റിംഗ് ചെയ്താൽ എന്താകും സംഭവിക്കുക ആദ്യം എലമെന്റ് നിന്നും വരും അർഹിന്റെ ദിശകൾ സമാനമായിരിക്കും അല്ലെ അതായത് ഈ ദിശയിൽ ആണ് ഈ പദം കുഴപ്പമില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് ചിഹ്നം വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസിലാകും ഉപരിതല എലമെന്റ് ന്റെ ഭാഗം യാഥാർഥ്യത്തിൽ ഈ ദിശയിലേക്ക് ഒഴുകുന്നു ഞാൻ ഒരു കൺവെൻഷൻ എടുത്താൽ അതെന്റെ ബാഹ്യരേഖകളെകേന്ദ്രീകരിക്കുന്നു നമുക്ക് അതിനെ എതിർ ഘടികര ദിശയിൽ ആണെന്ന് പറയാം അതിനാൽ എതിർ ഘടികാര ദിശയിലാണ് യും എതിർഘടികാര ദിശയിലാണ് ഇനി ഇവയുടെ സംഭാവന ഇവിടെ ഘടികാര ദിശയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു മൈനസ് ചിഹ്നം ഇട്ടത് അപ്പൊ ഇതാണ് രണ്ടാമത്തെ പദം ശെരി പിന്നെയും ഈ കൂടിച്ചേരൽ സർവത്രികമല്ല ചില ബുക്ക്കളിൽ വ്യത്യസ്ഥ ഓറിയന്റേഷനോ അല്ലെങ്കിൽ ഓറിയന്റേഷൻറെ അനുഭൂതിയോ ഉണ്ടായേക്കാം അതായത് ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ഇറ്ഗ് പരോക്ഷമാണ് അതായത്ഉം ഉം ഒരേ കൺവെൻഷൻ പിന്തുടരുന്നു അത് എതിർ ഘടികാര ദിശയിൽ ആണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ആശയത്തെ ഒന്നിലധികം ബന്ധിപ്പിച്ച പ്രദേശമായി ബന്ധിപ്പിക്കാം ശെരി അപ്പൊ ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ ഇല്ലാതാകുന്ന വ്യാപ്തമുണ്ട് ശെരി അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഗാമ യുണ്ട് അതിനെ എന്നും വിളിക്കാം ശെരി ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഞാൻ ഈ രേഖ ഇന്റഗ്രലുകളെ ഇതിൽ നിന്നും കുറക്കാൻ പോവുന്നു ഓക്കേ അതായഗ് ഇവിടെ n സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ ആ സുഷിരങ്ങളെ ഹോൾ 1 ഹോൾ 2 ഹോൾ n എന്നു പറയാം ഇനി ഇവിടെ വലതു കൈ വശത്തു എത്ര ഇന്റഗ്രലുകൾ കൂട്ടേണ്ടതായി വരും അതായത് ഒരെണ്ണം ഇൽ നിന്ന് പിന്നെ കുറക്കുക അപ്പോൾ ഇവിടെ മൊത്തം n പ്ലസ് 1 ഇന്റഗ്രലുകൾ വലത് കൈ വശത്തു ഉണ്ട് അതിന്റെ ദിശ ഇരുന്നു നല്ല കാര്യം ആണ് ഇവിടെ ഉള്ള ദിശ എതിർ ഘടികാര ദിശയാണ് അല്ലേ അതിനൽ അത് ഇതായിരിക്കില്ല മറിച്ചു അതായിരിക്കും തെറ്റ് തിരുത്തിയതിൽ നന്ദി ശെരി അപ്പോൾ എല്ലാം തന്നെ എതിർ ഘടികാര ദിശയിൽ ആണ് ഇത് നമ്മെ കണക്കുകൂട്ടലിന്റെ ഡോമെയിൻ കുറക്കാൻ സഹായിക്കുന്നു ഇനി ഇവിടെ താല്പര്യം ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്തിനു നമ്മൾ കണക്കാക്കണം അപ്പൊ ഞാൻ ആ എലമെന്റുകളെ ഇന്റഗ്രേഷനിൽ നിന്ന് നീക്കം ചെയ്യുന്നു ഇതിൽ കുറച്ചു രേഖ ഇന്റഗ്രലുകൾ കൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഇപ്പോൾ ഉപരിതലം ഇതിനെ ഒഴിവാക്കുന്നു അതായത് ഇവിടെയുള്ള S നെ ഇതാണ് നമ്മൾ ഈ കോഴ്സിൽ പറയുന്ന ഒന്നിലധികം പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റോക്സ് സിദ്ധാന്തം നന്ദി